സോളിഡ് വർക്സ് ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ ഓൺലൈൻ എൻപിടിഎൽ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസുകളിൽ സോളിഡ് വർക്ക് സോഫ്റ്റ്വെയറിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ സോളിഡ് വർക്കുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പരിശീലിക്കും ഇവിടെയോ ആപ്ലിക്കേഷനിൽ നിന്നോ ഈ സോളിഡ് വർക്ക് ഐക്കണിൽ ഇരട്ട ക്ലിക്കു ചെയ്തതിനുശേഷം നമ്മൾക്ക് ഈ ടെർമിനൽ ലഭിക്കും അതിനാൽ ഇതിൽ ഏതെങ്കിലും ഒബ്ജക്റ്റ് വരയ്ക്കാൻ ആകും ഏത് പതിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾക്ക് സോളിഡ് വർക്ക്സ് 2015 പതിപ്പ് ഉണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ പുതിയ പതിപ്പുകളിലേക്ക് പോകുമ്പോൾ സോഫ്റ്റ്വെയറിനായി പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകും ലളിതമായ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഴയ പതിപ്പുകൾ ഉപയോഗിക്കാം സോളിഡ് വർക്ക്സിന്റെ ആദ്യ ഘട്ടം നമ്മൾ ചെയ്യേണ്ടത് മൌസ് ഉപയോഗിച്ചാണ് ന്യു എന്ന ഒബ്ജക്റ്റ് നാമത്തിലൂടെ പോകാൻ ശ്രമിക്കുക ഇവിടെ നമുക്ക് ഈ ന്യു കൺട്രോൾ കാണാം അവിടെ ന്യു ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മൾ പരിശീലിക്കുന്നതിന്റെ ആദ്യ ഉദാഹരണം ദ്വിമാന സ്കെച്ചുകൾ അല്ലെങ്കിൽ പാർട്ട് ഡ്രോയിംഗ് ആണ് അതിനാൽ മുമ്പത്തെ ക്ലാസ്സിൽ സോളിഡ് വർക്കുകൾ 3 തരം വസ്തുക്കളെ തിരിച്ചറിയുന്നുവെന്ന് നമ്മൾ പഠിച്ചു ഒന്ന് പാർട്ട് ഡ്രോയിംഗ് മറ്റൊന്ന് അസംബ്ലി ഡ്രോയിംഗ് മറ്റൊന്ന് ഡ്രോയിംഗ് അതിനാൽ ആദ്യ ദ്വിമാന സ്കെച്ചുകൾ ലളിതമായ ത്രിമാന ഒബ്ജക്റ്റുകളായിരിക്കാം അവ നിർമ്മിക്കാൻ നമ്മൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ പാർട്ട് ഡ്രോയിംഗ് ക്ലിക്കുചെയ്യേണ്ടതുണ്ട് പാർട്ട് ക്ലിക്കുചെയ്യുക തുടർന്ന് ഒകെ ക്ലിക്കു ചെയ്യുക അത് ശൂന്യമായ ഒരു സ്ക്രീൻ തുറക്കുന്നു ആദ്യം നമ്മൾ ന്യു ഒബ്ജക്റ്റിലേക്ക് പോകുന്നു തുടർന്ന് ഇത് ഒരു പാർട്ട് ഡ്രോയിംഗ് പോലെ തുറക്കുന്നു തുടർന്ന് ഒകെ ക്ലിക്കുചെയ്യുക ഇത് ഒരു ശൂന്യമായ ഇടം തുറക്കുന്നു ഈ ശൂന്യമായ സ്ഥലത്ത് ഫ്രണ്ട് പ്ളെയിൻ ടോപ് പ്ളെയിൻ റൈറ്റ് പ്ളെയിൻ എന്നിവ സ്ഥിതിചെയ്യുന്ന ഒരു ഫീച്ചർ മാനേജർ നമ്മൾക്ക് ഉണ്ട് അതുപോലെ നമ്മൾക്ക് ഒരു സ്കെച്ച് ടൂൾബാർ പോലെയുള്ള ഒന്ന് ഉണ്ട് സ്കെച്ച് ലൈൻ വ്യത്യസ്ത തരം കാര്യങ്ങൾ എന്നിവ ഇവിടെ മറ്റൊരു ഒബ്ജക്റ്റ് ഉണ്ട് സൂം വ്യൂസ് എന്നിവയും മറ്റ് കാര്യങ്ങളും സ്ഥിതിചെയ്യുന്നു ചുവടെ നമ്മൾക്ക് എംഎംജിഎസ് എന്ന് പേരുള്ള യൂണിറ്റുകൾ ഉണ്ട് ഈ എംഎംജിഎസ് നമ്മളുടെ യൂണിറ്റുകളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആരംഭിക്കാം ഈ പാർട്ട് ഡ്രോയിംഗ് തുറന്നതിനുശേഷം നമ്മൾ സ്വമേധയാ വരയ്ക്കുന്ന ദ്വിമാന ഷീറ്റാണെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ നമ്മൾക്ക് എന്തും വരയ്ക്കാൻ നോർമൽ ആയി ഒരു ഷീറ്റ് ഉണ്ട് പക്ഷേ സോളിഡ്വർക്കിനായി നിങ്ങൾ ഏത് പ്ലെയിനിൽ വരയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്നുള്ളത് പ്രസ്താവിക്കണം കൂടാതെ ഏതെങ്കിലും ഡ്രോയിംഗ് ആരംഭിക്കാൻ ശുപാർശ ചെയ്യുന്ന പ്ളെയിൻ ഫ്രണ്ട് പ്ളെയിൻ തിരഞ്ഞെടുക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൌസ് ഫ്രണ്ട് പ്ലെയിനിലേക്ക് നീക്കുക തുടർന്ന് അത് ഒരു പ്ലെയിനിൻ്റെ ഐസോമെട്രിക് വ്യൂ പോലെയുള്ള ഒന്ന് കണ്ടെത്തുന്നു നിങ്ങളുടെ മൌസ് ക്ലിക്കുചെയ്യരുത് മൌസ് നീക്കുക അതുപോലെ നിങ്ങൾ മൌസ് ടോപ്പ് പ്ലെയിനിലേക്ക് നീക്കുകയാണെങ്കിൽ അത് ആ ഉപരിതലത്തിന്റെ പരന്ന ഭാഗം കാണിക്കുന്നു അതിനാൽക്യൂബോയിഡ് പോലെ കരുതുവാണേൽ അതുപോലെ ഒരു മിഡ്പ്ളെയിൻ ഫ്രണ്ട് പ്ളെയിൻ പോലെ കട്ട് സെക്ഷണൽ തരത്തിലുള്ളത് പ്ളെയിൻ നിർത്തുന്നുറൈറ്റ് പ്ളെയിൻ ഉണ്ട് ക്യൂബോയിടിൻ്റെ റൈറ്റ് പ്ളെയിൻ നമ്മൾക്കു കാണാം ഇങ്ങനെ ആണ് ഐസോമെട്രിക് ഡ്രോയിംഗുകൾക്കായി നമ്മൾ കണ്ടത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പ്ളെയിൻ ഒരു പ്രിൻസിപ്പൽ ആക്സിസിനെ പ്രതിനിധീകരിക്കുന്നു ടോപ് പ്ളെയിൻ നിങ്ങൾക്ക് മറ്റൊരു പ്രധാന ആക്സിസ് നൽകുന്നു റൈറ്റ് പ്ളെയിൻ നിങ്ങൾക്ക് മറ്റൊരു ആക്സിസ് നൽകുന്നു അതിനാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പ്ളെയിൻ തിരഞ്ഞെടുക്കുക എന്നതാണ് തിരഞ്ഞെടുക്കുക എന്നാൽ നിങ്ങളുടെ മൌസ് നീക്കുക തുടർന്ന് ആ ഒരു റൈറ്റ് ക്ലിക്ക് നൽകുക മൌസിന് വലതുവശത്ത് ലെഫ്റ്റ് വശത്ത് 2 ബട്ടണുകൾ ഉണ്ട് വലതുവശത്തെ ബട്ടൺ തിരഞ്ഞെടുക്കുക നിങ്ങൾ ക്ലിക്കുചെയ്തു കഴിഞ്ഞാൽ ആ പ്ലെയിനിന് നോർമൽ ആയി വരക്കുന്നോ അങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു അതിനാൽ ഈ ഒരു ചതുരം പോലെയുള്ള ചിഹ്നം അതിൽ ഒരു നോർമൽ വെക്റ്റർ ആ ദിശയിലേക്ക് കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ആ ഫ്രണ്ട് പ്ളെയിനിലേക്ക് വിന്യസിക്കും അതിനാൽ ആദ്യ ഘട്ടം നിങ്ങളുടെ മൌസ് ഫ്രണ്ട് പ്ലെയിനിലേക്ക് നീക്കുക തുടർന്ന് ഒരു റൈറ്റ് ക്ലിക്ക് നൽകി ഈ നോർമൽ കാര്യം ക്ലിക്കുചെയ്യുക നമ്മൾക്ക് ആ ഫ്രണ്ട് പ്ളെയിൻ ഉണ്ടാകും അതുപോലെ നമ്മൾ ഒരു ടോപ്പ് പ്ലെയിനിൽ അത് വരയ്ക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ടോപ്പ് പ്ലെയിനിൽ ഒരു റൈറ്റ് ക്ലിക്ക് നൽകുക തുടർന്ന് ഒരു ലെഫ്റ്റ് ക്ളിക്ക് ചെയ്യുക അപ്പോൾ ടോപ്പ് പ്ലെയിൻ കിട്ടും ആരംഭിക്കാൻ ശുപാർശ ചെയ്യുന്ന പ്ളെയിൻ നമ്മൾക്ക് ഒരു ഫ്രണ്ട് പ്ളെയിൻ ആണ് ക്ലിക്കുചെയ്യുക ലെഫ്റ്റ് ക്ലിക്കുചെയ്യുക തുടർന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് ക്ലിക്ക് എനിക്ക് ഒരു ഫ്രണ്ട് പ്ളെയിൻ കിട്ടും അതിനാൽ നമ്മൾ ചെയ്യുന്ന ദ്വിമാന ഡ്രോയിംഗുകൾ എന്തുതന്നെയായാലും നമ്മൾ ഈ ഫ്രണ്ട് പ്ലെയിനിൽ അത് ചെയ്യും അതിനാൽ നമുക്ക് അത് ചെയ്യാം ലൈൻ സർക്കിൾ കർവ് തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഉണ്ട് അതിനാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൌസ് നീക്കുക ഒരു ലെഫ്റ്റ് ക്ലിക്ക് നൽകുക എന്നതാണ് അതിനുശേഷം ഒരു ലൈൻ ഉണ്ട് ആ ലൈൻ തിരഞ്ഞെടുക്കുക തുടർന്ന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു രേഖ വരയ്ക്കുക തുടർന്ന് എന്റർ അമർത്തുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക ഇത് ഒരു രേഖ വരയ്ക്കുന്നു ഇപ്പോൾ ഈ വരി ചില യൂണിറ്റുകൾ വ്യക്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യുന്നത് ലൈനിന് അടുത്തായി ഒരു ബട്ടൺ സ്മാർട്ട് ഡൈമൻഷൻ ഉണ്ട് സ്മാർട്ട് ഡൈമൻഷൻ ഉപയോഗിച്ച് നമുക്ക് ആ വരിയുടെ നീളം ക്രമീകരിക്കാൻ കഴിയും അതിനാൽ ആ സ്മാർട്ട് ഡൈമൻഷൻ ക്ലിക്കുചെയ്യുക ക്ലിക്കുചെയ്യാതെ നിങ്ങളുടെ മൌസ് നീക്കി അതിൽ ക്ലിക്കുചെയ്യുക ആ അളവുകളിൽ നിങ്ങൾ സന്തുഷ്ടനാണെങ്കിൽ കുഴപ്പമില്ല ആ അളവിൽ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ 50 ഇടുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് തിരഞ്ഞെടുക്കാവുന്ന യൂണിറ്റുകൾ ആണ് അതിനാൽ നിങ്ങൾ ആ 50 ന് താഴെയാണെങ്കിൽ ആ യൂണിറ്റിലെ യൂണിറ്റുകൾ പോലെയുള്ള ഒന്ന് ഉണ്ട് അതിൽ നമ്മൾക്ക് മില്ലീമീറ്റർ എടുക്കാൻ കഴിയും അത് ചെയ്തുകഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ക്ലിക്കുചെയ്യുക Tഅപ്പോൾ ഇത് 50 മില്ലീമീറ്റർ അളവ് കാണിക്കുന്നു വീണ്ടും ആദ്യമായി ഇതിന് നോർമൽ ആയുള്ള ഫ്രണ്ട് പ്ളെയിൻ സാധാരണഗതിയിൽ തുറന്നതിനുശേഷം നിങ്ങളുടെ സൌകര്യത്തിനനുസരിച്ച് ഒരു പോയിന്റിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്ക് വരച്ച ഒരു രേഖ നമ്മൾ തിരഞ്ഞെടുക്കുന്നു കാരണം ഇത് ഒരു പരിശീലന സെഷനാണ് തുടർന്ന് എന്റർ അമർത്തുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക നിങ്ങൾ മൌസ് നീക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കാണില്ല ഇത് ഒരു രേഖ വരയ്ക്കുന്നു ഇപ്പോൾ ഈ വരി നമ്മൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ഡയമെൻഷൻ ക്ലിക്കുചെയ്യുക ഈ വരിയിൽ ക്ലിക്കുചെയ്യുക ആ അളവിൽ നമുക്ക് മൌസ് നീക്കാൻ കഴിയും തുടർന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് ക്ലിക്ക് നൽകുക ഇപ്പോൾ 75 യൂണിറ്റ് മില്ലീമീറ്ററിൽ നമ്മൾക്ക് താൽപ്പര്യമുള്ള അളവുകൾ എന്തുതന്നെയായാലും ഒകെ ക്ലിക്കുചെയ്യുക ഇത് 75 മില്ലീമീറ്ററുള്ള ഒരു വര വരയ്ക്കുന്നു ഡ്രോയിംഗിന് ഒരേ അളവാണ് എന്റെ നിർദ്ദേശം എന്നുവെച്ചാൽ ഒരേ യൂണിറ്റുകൾ ഉള്ള അളവുകൾ നിങ്ങൾ മില്ലീമീറ്ററിൽ ആരംഭിക്കുകയാണെങ്കിൽ എല്ലാം ആ സ്കെച്ചിലുടനീളം മില്ലീമീറ്ററുമായി പോകുക നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൽ എംഎം മാത്രം ഉപയോഗിക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇത് നിർദ്ദേശിക്കുന്നത് കാരണം നമ്മൾ പാർട്ട് ഡ്രോയിംഗ് ലെവലിൽ ഉള്ളതിനാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നു അതിനാൽ യൂണിറ്റുകൾ ഇതിന് എംഎം ആയിരിക്കാം അടുത്ത പാർട്ട് നമ്മൾ സെന്റിമീറ്ററിൽ നിർമ്മിക്കുമ്പോൾ ഈ വസ്തുക്കൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും അതിനാൽ എല്ലായ്പ്പോഴും മില്ലീമീറ്റർ പോലുള്ള യൂണിറ്റുകളുടെ ഒരു സിസ്റ്റം ഉപയോഗിച്ച് പോകുക ഇപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു ചെരിഞ്ഞ വര വരക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിശ്ചിത കോണിൽ ഒരു വരി കൂടി വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്റർ അല്ലെങ്കിൽ എസ്കേപ്പ് ബട്ടൺ അമർത്തിയിട്ടില്ലാത്തതിനാൽ വീണ്ടും വരി തിരഞ്ഞെടുക്കേണ്ടതില്ല എന്നതാണ് അതിനാൽ എനിക്ക് എന്റെ ലൈൻ കുഴപ്പമില്ലാതെ നീക്കി എന്റർ ക്ലിക്കുചെയ്യാം ഇപ്പോൾ എനിക്ക് എന്റർ എസ്കേപ്പ് എന്നിവ നൽകാം അതിനാൽ ഞാൻ ആ വരക്കുന്ന മോഡിൽ നിന്ന് പുറത്തുവരും ഇപ്പോൾ എനിക്ക് എന്റെ സ്മാർട്ട് ഡയമൻഷൻ ഉപയോഗിക്കാൻ കഴിയും ഇത് നിങ്ങൾ ശ്രദ്ധാലുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൌസ് സാധാരണ വലിച്ചിടാൻ കഴിയും അല്ലെങ്കിൽ ദൈർഘ്യം ക്രമീകരിക്കാൻ നമ്മൾക്ക് കഴിയും അല്ലെങ്കിൽ ഭൂനിരപ്പിനെ സംബന്ധിച്ച് ആ വരിയുടെ ലംബ ഉയരം നമ്മൾക്ക് നൽകാം അതിനായി നിങ്ങളുടെ മൌസ് തിരിക്കാൻ നിങ്ങൾ നീങ്ങുന്നു അപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ അത് മാറുന്നു ഒരു വരി ആ ദിശക്ക് നോർമൽ ദിശയിലേക്ക് കാണിക്കുന്നു മൌസ് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം മറ്റൊരു തരത്തിൽ നിങ്ങൾ അതിനെ കറക്കുകയോ തിരിക്കുകയോ ആണെങ്കിൽ അത് അതിന്റെ ലംബ ഉയരം കാണിക്കുന്നു അതുപോലെ നമുക്ക് ഈ ദിശയിലും ഉപയോഗിക്കാം അതിനാൽ അളവ് എന്ത് തന്നെ ആയാലും അത് കാണിക്കണം ഉദാഹരണത്തിന് 50 മില്ലിമീറ്റർ ഉയരം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ ചെയ്യുന്നത് 50 യൂണിറ്റ് അല്ലെങ്കിൽ മില്ലിമീറ്റർ ഒകെ ക്ലിക്കുചെയ്യുക അതിനാൽ താഴത്തെ നിലയുമായി ലംബ ഉയരം 50 മില്ലിമീറ്ററായതിനാൽ ഇപ്പോൾ വരി ചുരുങ്ങിയിരിക്കുന്നതായി നിങ്ങൾ കാണുന്നു ഇപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഉദാഹരണത്തിന് തുടർച്ചയായ ലൈനിന് പകരം ഒരു മധ്യരേഖ പോലെ നമ്മൾ ഒരു മധ്യരേഖ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്കുചെയ്യുക ത്രികോണാകൃതിയിലുള്ള വലിച്ചിടുന്ന തരത്തിലുള്ള ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഒരു ക്ലിക്ക് ചെയ്യുക ഒരു സെന്റർലൈൻ പോലെയുള്ള ഒന്ന് ഉണ്ട് സെന്റർലൈൻ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരയ്ക്കുന്നത് തിരഞ്ഞെടുക്കുക തുടർന്ന് എൻ്റർ അമർത്തുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക അതിനാൽ നിങ്ങൾ ഒരു മധ്യരേഖ വരയ്ക്കാവുന്ന അവസ്ഥയിലായിരിക്കും മുമ്പത്തെ ക്ലാസുകളിൽ നിങ്ങൾക്ക് ആക്സിസ് സമ്മതിയിലുള്ള തരത്തിലുള്ള വസ്തുക്കൾ ഉള്ളപ്പോൾ നമ്മൾ കണ്ടു നമ്മൾ ഈ മധ്യരേഖ ഉപയോഗിക്കുന്നു അതിനാൽ ആ മധ്യരേഖയിൽ എല്ലായ്പ്പോഴും വലിയ ഡാഷുകൾ കഴിഞ്ഞ് ചെറിയ ഡാഷ് രീതിയിൽ കാണാം ഇപ്പോൾ ഈ മധ്യരേഖയുടെ ദൂരം അല്ലെങ്കിൽ ഒരുപക്ഷേ നീളം ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഡയമെൻഷൻ അവിടെ ക്ലിക്കുചെയ്യുക മില്ലിമീറ്റർ പോലുള്ള യൂണിറ്റുകൾ എന്തായാലും 112 ആയി ക്രമീകരിക്കുക തുടർന്ന് ഒകെ ക്ലിക്കുചെയ്യുക അത് മധ്യ വരിയുടെ ദൈർഘ്യം യാന്ത്രികമായി ക്രമീകരിക്കുന്നു നിങ്ങൾ സ്കെച്ച് മോഡിലായിരിക്കുന്നിടത്തോളം കാലം പെൻസിൽ തരത്തിലുള്ള കാര്യങ്ങളും writ10 തരത്തിലുള്ള കാര്യങ്ങളും ഉള്ള ഒരു ഐക്കൺ പോലെയുള്ള ഒന്ന് ഇവിടെ കാണാം നിങ്ങൾ സ്കെച്ച് മോഡിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനർത്ഥം നിങ്ങൾ ആ പ്ലെയിനിലാണ് നിങ്ങൾ ഒരു വസ്തു തിരഞ്ഞെടുക്കുക നിങ്ങൾ വരയ്ക്കേണ്ട അവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് അത് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സ്കെച്ച് മോഡിൽ നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മായ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്ക് നേരിട്ട് വരികൾ ഇല്ലാതാക്കാൻ കഴിയില്ല ഒന്നാമതായി ഒന്നുകിൽ എസ്കേപ്പ് അമർത്തുക അല്ലെങ്കിൽ അവിടെ പോയി ആ ഒബ്ജക്റ്റ് ക്ലിക്കുചെയ്യുക അപ്പോൾ ഞാൻ ആ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവന്നു ഇപ്പോൾ എനിക്ക് വീണ്ടും വരയ്ക്കണമെങ്കിൽ എനിക്ക് ഫ്രണ്ട് പ്ലെയിൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ വരി ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ക്ലിക്കുചെയ്യുക അത് ചെയ്യുക താഴെക്കാണുന്നത് കളയുക എന്ന് പറയുന്നുണ്ടോ അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഇല്ലാതാക്കും അതിനാൽ നിങ്ങൾ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരുമ്പോഴെല്ലാം നിങ്ങൾ സാധാരണയായി ഇല്ലാതാക്കുകയാണെങ്കിൽ ഡ്രോയിംഗ് സേവ് ചെയുന്നില്ലെങ്കിൽ അത് എല്ലാം ഇല്ലാതാക്കുന്നു അതിനാൽ നമുക്ക് ഇത് വീണ്ടും ചെയ്യാം ഇതിൽ ഞാൻ എല്ലാം ഇല്ലാതാക്കിയതിനാൽ ഇപ്പോൾ ഞാൻ ഇത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്രണ്ട് പ്ലെയിനിലേക്ക് പോകുക നിങ്ങളുടെ മൌസ് നീക്കി റൈറ്റ് ക്ലിക്ക് നൽകുക തുടർന്ന് അത് നോർമൽ ടു പ്ലെയിൻ കാണിക്കുന്നു നോർമൽ ടു പ്ലെയിൻ ക്ലിക്കുചെയ്യുക അതിനാൽ നോർമൽ പ്ളെയിൻ തുറക്കുന്നു ഇപ്പോൾ ഒരു രേഖ വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മധ്യരേഖ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വരയ്ക്കുക തുടർന്ന് എന്റർ എസ്കേപ്പ് അമർത്തുക ഇപ്പോൾ സമാനമായി ഒരു ലൈൻ പോലെ എന്തെങ്കിലും വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് അത് അമർത്താൻ കഴിയുന്ന ലംബമായ സിസ്റ്റം എവിടെയാണെന്ന് അത് യാന്ത്രികമായി കണ്ടെത്തുന്നു തുടർന്ന് എൻ്റർ നൽകുക എസ്കേപ്പ് അമർത്തുക നമ്മൾ ഇപ്പോഴും എസ്കേപ്പ് മോഡിലാണ് ഈ വരി മാത്രം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങളുടെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ അമർത്തുന്നു എപ്പോ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണമോ നിങ്ങൾ സ്കെച്ച് മോഡിലായിരിക്കണം നിങ്ങൾ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവന്നാൽ അവയിലൊന്ന് തിരഞ്ഞെടുക്കുക സാധാരണയായി നിങ്ങൾ മറ്റ് കാര്യങ്ങളൊന്നും വ്യക്തമാക്കുന്നില്ലെങ്കിൽ അത് മുഴുവൻ ഒബ്ജക്റ്റിനെയും ഇല്ലാതാക്കുന്നു അതിനാൽ ഇല്ലാതാക്കിയ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ പ്ലെയിനിൽ ഒരു ദീർഘചതുരം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആദ്യം ഞാൻ എന്തുചെയ്യും ഞാൻ ഫ്രണ്ട് പ്ലെയിനിൽ ഇത് ഇല്ലാതാക്കും നോർമൽ ടു ചെയ്യും എനിക്ക് എല്ലായ്പ്പോഴും സ്ക്രോൾ ബട്ടൺ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ ഈ 2 മൌസ് ക്ലിക്കുകൾക്കിടയിൽ ഉപയോഗിക്കുന്നു ഒരു സ്ക്രോൾ ബട്ടൺ പോലെയുള്ള ഒന്ന് നമ്മൾ അത് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അത് ആ പ്ലെയിനിലേക്ക് സൂം ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്ലെയിനിൽ നിന്ന് സൂം ചെയ്യുകയോ ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ സൂം ഇൻ ചെയ്യുന്നു അത് സൂം ഔട്ട് ചെയ്യുന്നു ഇത് ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എല്ലായ്പ്പോഴും ഈ സൂം ടു ഏരിയ ഉപയോഗിക്കാം സൂം ടു ഏരിയ ആ പ്ലെയിനിൽ നിന്ന് സൂം ഔട്ട് ചെയ്യുക തുടങ്ങിയ ബട്ടണുകളുണ്ട് ഇപ്പോൾ ആ ഫ്രണ്ട് പ്ലെയിനിൽ ഒരു കോർണർ ദീർഘചതുരം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കോർണർ ദീർഘചതുരം എന്നാൽ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഞാൻ വ്യക്തമാക്കണം അതിനാൽ ഞാൻ ചെയ്യുന്നത് കോർണർ ദീർഘചതുരം ക്ലിക്കുചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക നമുക്ക് അത് വീണ്ടും ചെയ്യാം ഈ സ്കെച്ച് മോഡിൽ എല്ലാം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ക്ലിക്ക് ബട്ടൺ ഉപയോഗിക്കുക അത് പിടിക്കുക പിടിക്കുക എന്നതിനർത്ഥം വിടാതെ തുടർച്ചയായി അമർത്തുക തുടർന്ന് ഒബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക അത് എല്ലാം തിരഞ്ഞെടുക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും ആ പ്ലെയിനിന് നോർമലിലേക്ക് ഒരു കോർണർ ദീർഘചതുരം വരയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കോർണർ ദീർഘചതുരം ക്ലിക്കുചെയ്യുക ഞാൻ ഒരു മൌസും തൊട്ടിട്ടില്ല കാരണം ഞാൻ ഇതിനകം ക്ലിക്കുചെയ്ത മൂലയിൽ നിന്ന് മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോർണർ പോയിന്റുകളിലൊന്ന് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുക എന്നാൽ ക്ലിക്കുചെയ്യുക പിടിക്കുക ആ മൌസ് പിടിക്കുക തുടർന്ന് ആ ബട്ടൺ അമർത്തിപ്പിടിച്ച് നിങ്ങളുടെ മൌസ് നീക്കി അത് അമർത്തിപ്പിടിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നീക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലെയിനിൽ ആ ദീർഘചതുരം ഉണ്ടാകും ഇപ്പോൾ ആ ദീർഘചതുരത്തിന്റെ അങ്ങനെ വ്യക്തമാക്കിയ അളവുകൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി എനിക്ക് വീണ്ടും സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിക്കാൻ കഴിയും അവയിലൊന്ന് ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഇത് 49 22 ആണ് എനിക്ക് ലഭിക്കാൻ ആഗ്രഹം 50 മില്ലിമീറ്ററാണ് അതിനാൽ 50 മില്ലിമീറ്ററിൽ പോയി ഒകെ ക്ലിക്കുചെയ്യുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക അതായത് 50 മില്ലിമീറ്റർ ആ ഭാഗത്ത് ഉറപ്പിച്ചിരിക്കുന്നു മറുവശത്ത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അളവുകൾ വീണ്ടും ക്രമീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് 25 മില്ലിമീറ്ററിലേക്ക് നീക്കി ക്ലിക്കുചെയ്യുക അതിനാൽ മില്ലിമീറ്റർ ഒകെ ക്ലിക്കുചെയ്യുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക നിങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ അത് ഉചിതമായ അളവുകൾ ഉപയോഗിച്ച് മുഴുവൻ ദീർഘചതുരവും സൃഷ്ടിക്കുന്നു ഇപ്പോൾ നമ്മൾ മറ്റൊരു തരം ചതുരം നിർമിക്കും നമ്മൾ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുമ്പോഴെല്ലാം വ്യത്യസ്ത കാര്യങ്ങൾ ഉപയോഗിക്കും ഈ ദീർഘചതുരത്തെ നമ്മൾ എന്താണു വിളിക്കുന്നത് സെൻ്റർ റെക്റ്റാങ്കിൾ അതായത് ഈ പേജിൽ ദീർഘചതുരം ആരംഭിക്കേണ്ട സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റ് തിരഞ്ഞെടുക്കും ഇത് നോർമൽ ദിശയിലുള്ള ഫ്രണ്ട് പ്ലെയിനിലെ നമ്മളുടെ ദ്വിമാന പേജ് പോലെയാണ് ഒരിക്കൽ നമ്മൾ ആ പ്ലെയിനിൽ ക്ളിക്ക് ചെയ്താൽ നിർമ്മിക്കാൻ തുടങ്ങും ഏതൊരു ദ്വിമാന ഡ്രോയിംഗും നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക പ്ലെയിനിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്ന പ്ളെയിൻ ഫ്രന്റൽ പ്ളെയിൻ മാത്രമാണ് ഇപ്പോൾ ദീർഘചതുരത്തിന്റെ മധ്യഭാഗം തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട് അത്തരത്തിലുള്ള ദീർഘചതുരം നമ്മൾ സെന്റർ ദീർഘചതുരം എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഇതാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇപ്പോൾ അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പോയിന്റുകളിലൊന്ന് തിരഞ്ഞെടുക്കുക ആ പോയിന്റുകളിൽ ഒന്നിൽ ഒരു ലെഫ്റ്റ് ക്ലിക്കുചെയ്യുക തുടർന്ന് നീക്കുക ഞാൻ അത് അമർത്തിപ്പിടിക്കുന്നില്ല ഞാൻ ക്ലിക്കുചെയ്യുന്നതെ ഒള്ളു അതിനാൽ അത് ആ കോർണർ പോയിന്റ് തിരഞ്ഞെടുത്തു ഇപ്പോൾ ഞാൻ എന്റെ മൌസ് നന്നായി നീക്കി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദീർഘചതുരം നിർമ്മിക്കാം ഇപ്പോൾ വീണ്ടും ക്ലിക്കുചെയ്യുക ഇപ്പോൾ എന്റെ കൈകൾ ശൂന്യമായ ദീർഘചതുരം നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് 10 യൂണിറ്റ് 10 മില്ലിമീറ്ററായിരിക്കണമെന്ന് വ്യക്തമാക്കാൻ ഒരു സ്മാർട്ട് ഡയമെൻഷൻ ചെയ്യണം ഒകെ ക്ലിക്കുചെയ്യുക ഇപ്പോൾ മറ്റ് അളവുകൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി എനിക്ക് വീണ്ടും സ്മാർട്ട് ഡയമെൻഷൻ ക്ലിക്കുചെയ്യാം അല്ലെങ്കിൽ ഇതിനകം ഞാൻ സ്മാർട്ട് ഡയമെൻഷണിൽ ആണ് അതുകൊണ്ടാണ് സ്മാർട്ട് ഡയമെൻഷൻ ഇവിടെ എടുത്തുകാണിക്കുന്നത് അതിനാൽ വീണ്ടും സ്മാർട്ട് ഡയമെൻഷൻ ക്ലിക്കുചെയ്ത് 40 മില്ലിമീറ്റർ യുണിറ്റ് ആയി ഉപയോഗിക്കുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക അതിനാൽ നമ്മൾ ആ മധ്യചതുരം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ദീർഘചതുരം ഉപയോഗിക്കാം 3 പോയിന്റ് കോർണർ ദീർഘചതുരം പോലുള്ള മറ്റൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് നമ്മൾക്ക് 3 വ്യത്യസ്ത പോയിന്റുകളുണ്ട് ഒരു കോർണർ ദീർഘചതുരം നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുക്കുക തുടർന്ന് ഒരു ബട്ടണും പിടിക്കാതെ നിങ്ങളുടെ മൌസ് നീക്കുക ആദ്യ പോയിന്റ് തിരഞ്ഞെടുക്കുക രണ്ടാമത്തെ പോയിൻ്റും മൂന്നാമത്തെ പോയിൻ്റും തിരഞ്ഞെടുക്കുക അത് ചെയ്തു കഴിഞ്ഞാൽ എസ്കേപ്പ് രണ്ടുതവണ അമർത്തുക അതിനാൽ അത് ഒബ്ജക്റ്റ് ഒറപ്പിക്കുന്നു ഇപ്പോൾ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിക്കുക ഇത് 15 യൂണിറ്റുകളായി മാറ്റാം ഒരുപക്ഷേ ഇത് ഒരു 24 യൂണിറ്റുകൾ തുടർന്ന് എസ്കേപ്പ് അമർത്തുക 3 പോയിന്റുകൾ ഉപയോഗിച്ച് ഈ കോർണർ ദീർഘചതുരങ്ങൾ നിർമ്മിക്കേണ്ട രീതി ഇതാണ് ഇപ്പോൾ ഒരു സമചതുരം നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം അത് എങ്ങനെ ചെയ്യാം നമുക്ക് അതേ ദീർഘചതുരം ഉപയോഗിക്കാൻ കഴിയും ഇരുവശത്തും ക്രമീകരിക്കാൻ നമ്മൾ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിക്കുന്നു ഈ മൂലയിലെ ഏതെങ്കിലും ദീർഘചതുരങ്ങൾ പോലെ ഒരു പോയിന്റ് മുതൽ മറ്റൊരു പോയിന്റ് വരെ നമ്മൾ ഉപയോഗിക്കുന്നു ആദ്യം ഞാൻ അതിനെ ഒരു ദീർഘചതുരം പോലെ വരയ്ക്കും തുടർന്ന് ഞാൻ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിക്കും ഇതിൽ 10 യൂണിറ്റായി ക്ലിക്കുചെയ്യുക ഇതും 10 യൂണിറ്റുകളാണ് തുടർന്ന് എസ്കേപ്പ് അമർത്തുക അതിനാൽ ദീർഘചതുരത്തിന്റെ അതേ കമാൻഡിനും സ്ക്വയറുകൾ നിർമ്മിക്കാൻ കഴിയും ഏതെങ്കിലും സമചതുരം നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒബ്ജക്റ്റിനുള്ളിലെ മറ്റേതെങ്കിലും ദീർഘചതുരരേഖ വളരെ നേരെയാണ് നിങ്ങൾ ലൈനിൽ ക്ലിക്കുചെയ്യുക അവിടെ നിന്ന് ആ വരിയുടെ മധ്യഭാഗത്തേക്ക് പോയിന്റുകളിലൊന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ യോജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് എന്റർ അമർത്തുക നമ്മൾ ആ ലൈൻ പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ പാരല്ലലഗ്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ദീർഘചതുരങ്ങൾ എല്ലായ്പ്പോഴും ആ അരികുകളെ 90 ഡിഗ്രിയാക്കുന്നു സമചതുരങ്ങളും 90 ഡിഗ്രിയാക്കുന്നു പാരല്ലലഗ്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പാരല്ലലഗ്രം ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ മൌസ് കാണുന്നുണ്ടെങ്കിൽ അത് കഴ്സർ ലെവൽ ഒരു പാരല്ലലഗ്രം പോലെ കാണിക്കുന്നു ഈ ഇടത് വശത്ത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഓപ്ഷനുകൾ ഉണ്ട് അതിനാൽ നിങ്ങളുടെ സോളിഡ് വർക്ക് നിരവധി ഓപ്ഷനുകൾ കാണിക്കുന്നു ഈ കോർണർകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമോ അല്ലെങ്കിൽ സെന്റർ കോർണർ തരത്തിലുള്ളവയോ 3 പോയിന്റ് തരത്തിലുള്ള കാര്യങ്ങളോ അതുപോലെ മറ്റു പല കാര്യങ്ങളും ഈ പാരല്ലലഗ്രം നമുക്ക് ആ രീതിയിലും ഉപയോഗിക്കാം നമ്മൾ എങ്ങനെ നിർമ്മിച്ചുവെന്നത് ദീർഘചതുരത്തിന് സമാനമാണ് കോർണർ മുതൽ കോർണർ പാരലലോഗ്രാം വരെ നമുക്ക് ഇത് നിർമ്മിക്കാൻ കഴിയും ആദ്യ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ചില ചെരിവ് ആംഗിൾ 3 എന്നിവ തിരഞ്ഞെടുക്കേണ്ടതിനാൽ ഇവിടെ സ്ഥിരസ്ഥിതി ഓപ്ഷൻ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ ഇത് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം ആദ്യ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ഞാൻ നീക്കുവാണെങ്കിൽ നിങ്ങൾ കാണുന്നു അത് ക്രമീകരിക്കുന്നത് ചെരിവ് കോണാണ് ഇപ്പോൾ എന്റെ അളവുകൾ അടിസ്ഥാനമാക്കി അതായത് സ്മാർട്ട് ഡയമെൻഷൻ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് അത് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കോണീയ അളവുകൾ പോലെയുള്ള ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആവശ്യത്തിനും നമുക്ക് സ്മാർട്ട് ഡയമൻഷൻ ഉപയോഗിക്കാം തിരശ്ചീനമായി എന്തോ ഓക്കേ ഓർഡിനേറ്റ് ഡയമെൻഷൻ അത് തിരഞ്ഞെടുക്കാം ഉദാഹരണത്തിന് ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള തിരശ്ചീന ദൂരം 15 യൂണിറ്റായി കണക്കാക്കപ്പെടുന്നു തുടർന്ന് നമ്മൾ 15 ക്ലിക്കുചെയ്യുക ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് തിരശ്ചീന ദൂരം 15 ആയിരിക്കണം അതുപോലെ ലംബമായും നമുക്ക് ഇത് ക്രമീകരിക്കാൻ കഴിയും അതേ പാരല്ലലഗ്രത്തിൽ നമ്മൾ 2 കോർണർ പോയിന്റുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നേരിട്ട് ഒരു ദീർഘചതുരം നിർമ്മിക്കുന്നു കാരണം ദീർഘചതുരം ഈ പാരല്ലലഗ്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഷീറ്റ് അടയ്ക്കാം വെറോരെണ്ണം തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഡ്രോയിംഗുകൾ സേവ് ചെയ്യണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരിക മുകളിലേക്ക് പോകുക ന്യു പോലെ ചില കാര്യങ്ങൾ ഉണ്ട് സേവ് പോലെ എനിക്ക് എല്ലായ്പ്പോഴും എന്റെ ഡ്രോയിംഗ് സേവ് ചെയ്യാൻ കഴിയും ഒരു പ്രത്യേക കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയും എല്ലായ്പ്പോഴും നല്ലത് ഡ്രോയിംഗ് പ്രാക്ടീസ് എന്ന് ന്യു ഫോൾഡറിൽ ഒരു ഡയറക്ടറി നിർമ്മിക്കുന്നതാണ് തുടർന്ന് ഓപ്പൺ ക്ലിക്കുചെയ്യുക ആദ്യ ഡ്രോയിംഗ് ഇതാണ് അതുകൊണ്ട് പാർട്ട് 1 2 ഡി ഡ്രോയിംഗ് എന്ന് നാമകരണം ചെയ്യുന്നു ഡ്രോയിംഗുകൾ സേവ് ചെയ്യുന്നതിന് സോളിഡ് വർക്കുകൾ ഒരു പ്രത്യേക ഫോർമാറ്റ് ഉപയോഗിക്കുന്നതിനാൽ പാർട്ട് ഓപ്ഷൻ sld പാർട്ട് പോലെയുള്ള ഒന്ന് ഉണ്ട് സോളിഡ് വർക്ക്സ് പാർട്ട് അല്ലെങ്കിൽ അത് ഡ്രോയിംഗിന്റെ ഭാഗമാണെന്ന് ആണ് ഇതിനർത്ഥം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വ്യത്യസ്ത പതിപ്പുകളിൽ ഇത് സേവ് ചെയ്യാൻ കഴിയും അതായത് നിങ്ങൾക്ക് വ്യത്യസ്ത തരം ഫോർമാറ്റുകൾ ഉള്ളതുപോലെ ജെപിഇജി ഒക്കെ പോലെ എന്നാൽ dot prt അല്ലെങ്കിൽ dot sld പാർട്ട് പോലുള്ള പാർട്ട് ഡ്രോയിംഗ് പോലെ നിങ്ങൾ ഇത് സേവ് ചെയ്യാൻ പോകുന്നുവെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഡ്രോയിംഗ് എടുത്ത് കാര്യങ്ങൾ അപ്ഡേറ്റു ചെയ്യാം കൂടുതൽ വിശദാംശങ്ങൾ ചേർക്കാം അല്ലെങ്കിൽ ഡ്രോയിംഗ് എഡിറ്റു ചെയ്യാം നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് സേവ് ചെയ്യണം എന്നതാണ് ആദ്യപടി അതിനാൽ ഡ്രോയിംഗ് എല്ലായ്പ്പോഴും സേവ് ചെയ്യും ഇപ്പോൾ നേരിട്ട് ക്ലിക്കുചെയ്ത് ഈ ഡ്രോയിംഗ് അടയ്ക്കുക ഇപ്പോൾ നമ്മൾ അത് തുറക്കാൻ ആഗ്രഹിക്കുന്നു പുതിയത് തുറക്കാം നമ്മൾ ന്യു ക്ലിക്കുചെയ്യുക പഴയത് തുറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാർട്ട് 1 2 ഡി പോലുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ സോളിഡ് വർക്കിൽ നിങ്ങളുടെ മൌസ് നീക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകം പ്രവർത്തിച്ച ആ ഭാഗത്തിന്റെ ചുരുക്കിയ പതിപ്പ് ഇത് ഉടൻ കാണിക്കുന്നു അതിനാൽ നിങ്ങൾ അത് എഡിറ്റുചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൽ ക്ലിക്കുചെയ്യുക ഇത് ഉടൻ തന്നെ ഡ്രോയിംഗ് തുറക്കുന്നു ഈ അളവുകൾ നമ്മൾ ഒരു ഡ്രോയിംഗ് ഷീറ്റിലേക്ക് പരിവർത്തനം ചെയ്യുന്നില്ലെങ്കിൽ ഈ തലത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏത് തരം അളവുകൾ ഉപയോഗിക്കുന്നുണ്ടോ സോളിഡ് വർക്കുകൾ അത് കണ്ടെത്തുന്നു അത് ആ അളവുകൾ കാണിക്കുകയും ആന്തരികമായി സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ അത് സേവ് ചെയ്യുമ്പോൾ മറ്റ് അന്തർനിർമ്മിത ഫംഗ്ഷനുകൾ പരിവർത്തനം ചെയ്യുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഇത് നേരിട്ട് അളവുകൾ കാണിക്കില്ല അതിനാൽ അടുത്ത ക്ലാസ്സിൽ ദ്വിമാന ഷീറ്റുകളിൽ എങ്ങനെ സർക്കിളുകൾ വരയ്ക്കാം ഒരുപക്ഷേ സ്ലോട്ടുകൾ നേരായ സ്ലോട്ട് ഇത് എങ്ങനെ നിർമ്മിക്കാം ദീർഘവൃത്തം എങ്ങനെ നിർമ്മിക്കാം വ്യത്യസ്ത തരം പെന്റഗൺ എങ്ങനെ നിർമ്മിക്കാം എന്നിങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതലറിയും